കീവേഡ് കൺട്രോളർ ഫീഡ്ബാക്ക് നിയന്ത്രണം ഫീഡ് ഫോർവേഡ് കൺട്രോൾ ലോ നമസ്കാരം ഈ കോഴ്സിന്റെ പതിനാലാം പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫീഡ് ഫോർവേഡ് നിയന്ത്രണവും റേഷ്യോ കണ്ട്രോളും പഠിക്കും ഇതുവരെ നമ്മൾ ക്ലാസിക്കൽ നിയന്ത്രണ ഘടന പരിശോധിച്ചു പക്ഷേ ഇന്ന് തത്ത്വത്തിൽ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ മറ്റ് ചില നിയന്ത്രണ ഘടനകളെക്കുറിച്ച് നോക്കാം അതിനാൽ ആദ്യം നാം പ്രബോധന ലക്ഷ്യങ്ങൾ കാണും പാഠം പഠിച്ചതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്മേൽ ഫീഡ് ഫോർവേഡ് നിയന്ത്രണത്തിന്റെ ഒരു നേട്ടവും ഒരു പോരായ്മയും വിവരിക്കാൻ കഴിയും ഈ ഫീഡ് ഫോർവേർഡ് ഘടനയെ മറികടക്കുന്ന ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന പോരായ്മയുണ്ട് മറുവശത്ത് ഫീഡ് ഫോർവേർഡ് ഘടനയും പ്രതികൂലത അനുഭവിക്കുന്നു അത് ഫീഡ്ബാക്ക് നിയന്ത്രണത്തെ മറികടക്കുന്നു അതിനാൽ ഇവ രണ്ടും താരതമ്യേന വിലയിരുത്തും ഒരു നിയന്ത്രണ പ്രശ്നം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോൾ ലൂപ്പ് ഘടന വരയ്ക്കാൻ കഴിയണം ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിന് ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതിനാൽ മികച്ച ഫലങ്ങൾക്കായി ഒരു നിയന്ത്രണ കോൺഫിഗറേഷനിൽ ഫീഡ് ഫോർവേഡ് നിയന്ത്രണവും ഫീഡ്ബാക്ക് നിയന്ത്രണവും ഉപയോഗിക്കണം അത്തരം ലൂപ്പുകൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ കാണും അവസാനമായി വിവിധ താപ രാസ പ്രക്രിയകളിൽ വളരെ സാധാരണമായ ഒരു പ്രത്യേക തരം നിയന്ത്രണ പ്രശ്നം നമുക്ക് പരിശോധിക്കാം ഇതിനെ റേഷ്യോ കൺട്രോൾ എന്ന് വിളിക്കുന്നു ഇത് ഈ ഫീഡ് ഫോർവേഡ് കോൺഫിഗറേഷന് സമാനമാണ് അതിനാൽ ഇവയാണ് നമ്മളുടെ പ്രബോധന ലക്ഷ്യങ്ങൾ നമുക്ക് പരമ്പരാഗത ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടന നോക്കാം ഇത് നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു ഘടനയാണ് ഇതിൽ നിങ്ങൾക്ക് സെറ്റ് പോയിന്റ് ഉണ്ട് അതിനാൽ ഇത് സെറ്റ് പോയിന്റാണ് ഇതാണ് ഫീഡ്ബാക്ക് ഇവിടെ നിങ്ങൾക്ക് പിശക് ഉണ്ട് ഇതാണ് നിങ്ങളുടെ കൺട്രോളർ ഇതാണ് കൺട്രോൾ ഇൻപുട്ട് യു ഇത് പ്ലാന്റിലേക്ക് പോകുന്നു ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്ന പ്ലാന്റാണിത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ പ്ലാന്റിന് നിരവധി ഡിസ്റ്റർബൻസ് ഉണ്ട് നമ്മളുടെ നിയന്ത്രണത്തിന് അതീതമായ മറ്റ് ഘടകങ്ങളും ഔട്ട്പുട്ടിനെ ബാധിക്കുന്നു ഇത് u മാത്രമല്ല അത്തരം ഘടകങ്ങൾ നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുന്നു ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടനകൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് കുറയ്ക്കാം എന്ന് നമ്മൾ കണ്ടു ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടനയിലെ ഡിസ്റ്റർബൻസ് കുറയ്ക്കാൻ സാധ്യമാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ സ്ഥിരമായ അവസ്ഥയിൽ മാത്രം ഇത് സാധിക്കുകയുള്ളൂ ഡിസ്റ്റർബൻസ് വളരെ വേഗത്തിൽ നിർവീര്യമാക്കുന്നതിന് സാധാരണയായി ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടന വളരെ കാര്യക്ഷമമല്ല ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന പോരായ്മയാണിത് ഇതിനാലാണ് ഫീഡ്ഫോർവേർഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് അതിനാൽ ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ പ്രധാന പോരായ്മ സെറ്റ് പോയിന്റ് മാറ്റത്തിനായി നിയന്ത്രണ പ്രവർത്തനം ഉടനടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പക്ഷേ ലോഡ് ഡിസ്റ്റർബൻസിൽ മാറ്റം വരുത്തരുത് അതിനാൽ സെറ്റ് പോയിന്റിലെ ഏത് മാറ്റത്തിനും ഇത് ഉടനടി പ്രതികരിക്കും പക്ഷേ ലോഡ് ഡിസ്റ്റർബൻസ് മാറ്റത്തിന് അങ്ങനെയല്ല അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾകാണും നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്പ് കാണാം അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും പഠിച്ച പരമ്പരാഗത ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടന നോക്കാം ഇപ്പോൾ ഇതാണ് സെറ്റ് പോയിന്റ് ഇതാണ് ഫീഡ്ബാക്ക് ഇതാണ് പിശക് ഇതാണ് നിയന്ത്രണ ഇൻപുട്ട് യു ഔട്ട്പുട്ട് y ഇതാണ് ഡിസ്റ്റർബൻസ് d ഫീഡ്ബാക്ക് കണ്ട്രോളർ പ്രവർത്തിക്കുമ്പോൾ അത് പ്രധാനമായും പിശകിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അതിനാൽ പിശക് മാറ്റങ്ങൾക്കനുസരിച്ച് പിശക് മാറുന്നതിനനുസരിച്ച് നിയന്ത്രണ ഇൻപുട്ട് മാറും സെറ്റ് പോയിന്റിൽ പെട്ടെന്നുള്ള മാറ്റമുണ്ടെങ്കിൽ ഉടൻ തന്നെ പിശകിൽ പെട്ടെന്നുള്ള മാറ്റമുണ്ടാകും അതിനാൽ സെറ്റ് പോയിന്റിനോടുള്ള പ്രതികരണമായി ഇൻപുട്ട് ഉടൻ തന്നെ മാറാൻ തുടങ്ങുന്നു അതിനാൽ പോയിന്റ് മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിൽ ഫീഡ്ബാക്ക് കൺട്രോളർ വേഗതയുള്ളതാണ് ഡിസ്റ്റർബൻസ് തലത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ എന്തുസംഭവിക്കും ഉദാഹരണത്തിന് ഒരു മോട്ടറിന്റെ കോണീയ സ്ഥാനം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് കരുതുക അത് ഗിയർ ഉപയോഗിച്ച് മറ്റ് സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം അതിനാൽ നിങ്ങൾ ഘടന കാണുകയാണെങ്കിൽ ഒരു ഇലെക്റ്റ്റോമാഗ്നെറ്റിക് ടോർക്ക് ഉണ്ട് അത് ഒരു നിയന്ത്രണ ഇൻപുട്ടാണ് അവിടെ ഒരു ലോഡ് ടോർക്ക് ഉണ്ട് അതാണ് ഡിസ്റ്റർബൻസ് അതിനാൽ ഈ ലോഡ് ഒരു ആക്സെലറേഷൻ സൃഷ്ടിക്കുന്നു അതായത് θ ഡബൽ ഡോട്ട് ഈ സംയോജനം ഒരു തലത്തിൽ കടന്നുപോകുകയും നമുക്ക് θ ഡോട്ട് നൽകുന്നു പിന്നീട് ഇത് സംയോജനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പോയി θ നൽകുന്നു അതിനാൽ ഒന്നുകിൽ ഡിസ്റ്റർബൻസ് ഇവിടെ പ്രവേശിക്കുകയോ രണ്ട് സംയോജനങ്ങളിലൂടെ കടന്നുപോകുകയോ ചെയ്യും അവസാനം ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുന്നു ഇവ ഇന്റഗ്രേറ്ററുകളായതിനാൽ ഇവ മന്ദഗതിയിലുള്ള ഉപകരണങ്ങളാണ് ഡിസ്റ്റർബൻസ് ഒരു പടി മാറ്റം ഉണ്ടെങ്കിൽ പോലും ഔട്ട്പുട്ടിൽ ഒരു പടി മാറ്റം ഉണ്ടാകില്ല പക്ഷേ ഔട്ട്പുട്ട് പതുക്കെ കുറയാൻ തുടങ്ങും ലോഡ് ടോർക്ക് പെട്ടെന്ന് വർദ്ധിക്കുകയാണെങ്കിൽ തീറ്റയുടെ വേഗത കുറയും ഇപ്പോൾ ഫീഡ്ബാക്ക് കൺട്രോളറിന് പിശകിനോട് പ്രതികരിക്കാൻ മാത്രമേ കഴിയൂ Y ൽ മന്ദഗതിയിലുള്ള മാറ്റമുണ്ടെങ്കിൽ പിശകിലെ മാറ്റവും മന്ദഗതിയിലാകും അതിനാൽ ഫീഡ്ബാക്ക് കൺട്രോളർ അതിന്റെ ഇൻപുട്ട് ഉയർത്താൻ ഉടനടി ശ്രമിക്കില്ല കാരണം അസ്വസ്ഥതയുടെ തോത് ഉയർന്നു എന്നാൽ ഇത് ഇൻപുട്ടിനെ സാവധാനം മാറ്റും അതായത് വേഗത നല്ല അളവിൽ കുറയുകയും പിന്നീട് സാവധാനം ഫീഡ്ബാക്ക് നിയന്ത്രണ പ്രവർത്തനം നടപ്പിലാക്കുകയും ചെയ്യും അപ്പോൾ ഇൻപുട്ട് ഉയരുകയും വേഗത പിശക് ശരിയാക്കുകയും ചെയ്യും അതിനാൽ വേഗത പിശക് യഥാർത്ഥത്തിൽ വളരെക്കാലം നിലനിൽക്കും ഇത് ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന പോരായ്മയാണ് ഈ പോരായ്മയാണ് ഫീഡ് ഫോർവേഡ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ അതാണ് ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ പോരായ്മ സെറ്റ് പോയിന്റ് മാറ്റത്തിനായി നിയന്ത്രണ പ്രവർത്തനം ഉടനടി ആരംഭിക്കുന്നു പക്ഷേ ലോഡ് ഡിസ്റ്റർബൻസിലല്ല അതിനാൽ നിങ്ങൾക്ക് വലിയ സമയ സ്ഥിരതകളോ കാലതാമസമോ ഉള്ള പ്രക്രിയകളിൽ ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിൽ കാണിക്കാൻ വളരെയധികം സമയമെടുക്കും നിങ്ങളുടെ തിരുത്തൽ നടപടി വൈകും അതിനാൽ നിയന്ത്രണം ഫലപ്രദമല്ല കാരണം വലിയ പിശകുകൾ ദീർഘനേരം നിലനിൽക്കും അപ്പോൾ അതാണ് പ്രശ്നം ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് വേഗതയിലോ സ്ഥാന നിയന്ത്രണത്തിലോ ഉള്ള ടോർക്ക് ഡിസ്റ്റർബൻസ് ആണ് സാധാരണ ഉദാഹരണം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചചെയ്തു രണ്ടാമത്തെ ഉദാഹരണം താപനില നിയന്ത്രണം ഉദാഹരണത്തിന് കൂളന്റ് പമ്പ് പ്രെഷർ മാറ്റം ശീതീകരണ പ്രവാഹത്തെ ബാധിക്കും വീഴുന്ന താപനിലയിലേക്കോ ഉയരുന്ന താപനിലയിലേക്കോ ശീതീകരണ പ്രവാഹത്തിലെ മാറ്റം റിയാക്ടറിന്റെ താപ ശേഷി ഉൾക്കൊള്ളുന്നു അതിനാൽ ശീതീകരണ പമ്പ് ഒഴുക്ക് പെട്ടെന്ന് വീഴുകയാണെങ്കിൽപ്പോലും താപനില കുറയാൻ ഇതിന് ധാരാളം സമയമെടുക്കും ഫീഡ്ബാക്ക് നിയന്ത്രണ ഘടന ഉപയോഗിച്ച് ഇത് ചെയ്താൽ ശീതീകരണ പ്രവാഹത്തിനുള്ള തിരുത്തൽ നടപടി നടക്കില്ല ഇതിനായി നമുക്ക് ഫീഡ് ഫോർവേർഡ് കൺട്രോൾ ഉണ്ട് ഇപ്പോൾ ആദ്യം അതിന്റെ ശുദ്ധമായ രൂപത്തിൽ ഫീഡ് ഫോർവേർഡ് കൺട്രോൾ എന്താണ് എന്ന് നോക്കാം ലോഡ് ഡിസ്റ്റർബൻസ് മാറ്റം നിങ്ങൾ അളക്കുക എന്നതാണ് അടിസ്ഥാന തത്വം ഫീഡ്ബാക്ക് നിയന്ത്രണത്തിൽ ലോഡ് അസ്വസ്ഥത മാറ്റം അളക്കുന്നില്ലെങ്കിൽ അളക്കുന്നത് പ്രോസസ്സ് ഔട്ട്പുട്ടാണ് എന്നാൽ ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിനെ ബാധിക്കാൻ സമയമെടുക്കും ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിൽ ലോഡ് ഡിസ്റ്റർബൻസ് സ്വയം അളക്കുക എന്നതാണ് നമ്മളുടെ സമീപനം ഇത് സാധ്യമാകാം അല്ലെങ്കിൽ സംഭവിക്കാനിടയില്ല അത് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഫീഡ് പ്രയോഗിക്കാൻ കഴിയില്ല ഡിസ്റ്റർബൻസ് അളക്കാൻ കഴിയുന്ന രണ്ട് സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ടുള്ള ഫീഡിന്റെ പ്രയോഗക്ഷമതയെയും ഇത് നിയന്ത്രിക്കുന്നു ഡിസ്റ്റർബൻസ് പല സാഹചര്യങ്ങളിലും അളക്കാൻ കഴിയും നിങ്ങൾക്ക് ലോഡ് ഡിസ്റ്റർബൻസ് അളക്കാൻ കഴിയുമെങ്കിൽ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നതിനു മുമ്പുതന്നെ നിങ്ങൾക്ക് പ്രവചനാത്മക നടപടി എടുക്കാം പിശകുകൾ ശരിക്കും ജനറേറ്റു ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒരു പ്രോസസ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളർ ഉണ്ട് മാത്രമല്ല നിങ്ങൾ ഡിസ്റ്റർബൻസ് അളക്കുകയും ഫീഡ് ഫോർവേർഡ് കൺട്രോളറിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു ഫീഡ് ഫോർവേഡ് കൺട്രോളറും റഫറൻസും ഫീഡിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഇൻപുട്ട് കണക്കുകൂട്ടാൻ ഫീഡ് ഫോർവേഡ് കൺട്രോളർ റഫറൻസിന്റെ മൂല്യവും ഡിസ്റ്റർബൻസ് മൂല്യവും ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ ഇത് ഓപ്പൺ ലൂപ്പ് നിയന്ത്രണത്തിന്റെ ഒരു രൂപമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ഒന്നുമില്ല മറിച്ച് രണ്ട് ഇൻപുട്ടുകൾ മനസ്സിലാക്കുകയും ഒരു നിയന്ത്രണ പ്രവർത്തനം നൽകുകയും ചെയ്യുന്നു സ്വാഭാവികമായും നമ്മളുടെ നഷ്ടപരിഹാരം നമ്മൾ ആഗ്രഹിക്കുന്ന അന്തിമ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഡിസ്റ്റർബൻസ് മാറ്റമുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്റ്റർബൻസ് ആണ് ഇൻപുട്ടിന് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് പത്ത് ശതമാനം ആണ് മാറ്റമുണ്ടെങ്കിൽ ഇൻപുട്ടിൽ അഞ്ച് ശതമാനം മാറ്റം പ്രയോഗിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതുക അഞ്ച് ശതമാനം ആറ് ശതമാനമായി മാറുന്നുവെന്ന് കരുതുക അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അമിതമായി ചെലവഴിച്ചുവെന്നും ഔട്ട്പുട്ട് നിലനിർത്തില്ലെന്നും ആണ് ഔട്ട്പുട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് എടുക്കാത്തതിനാൽ ഇത് അറിയാൻ നിങ്ങൾക്ക് ഒരു മാർഗവുമില്ല സെറ്റ് പോയിന്റ് ഔട്ട്പുട്ടിനെ എത്ര കൃത്യമായി ബാധിക്കുന്നുവെന്നും ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അറിയുന്നതിനെ ആശ്രയിച്ചിരിക്കും ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിൻറെ ഫലപ്രാപ്തി കൃത്യമായ ഫലങ്ങൾ നൽകുന്നതിന് ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിനായി നിങ്ങൾ പ്രോസസ്സ് മോഡലുകൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം കൂടാതെ മോഡലിംഗ് പിശക് നിയന്ത്രണ പിശകിൽ നേരിട്ട് ദൃശ്യമാകും ഫീഡ്ബാക്കിൽ ഇത് അങ്ങനെയല്ല ഫീഡ്ബാക്ക് നിയന്ത്രണം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണിത് എല്ലായിടത്തും ഫീഡ്ബാക്ക് നിയന്ത്രണം മോഡലിൽ കാര്യമായ പരിധിയെ ആശ്രയിക്കുന്നില്ല ഇത് മോഡലുകളെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിനാൽ പ്രോസസ്സ് മോഡലിന്റെ കൃത്യമായ വിവരണം നിങ്ങൾക്ക് ആവശ്യമില്ല ഇത് അടിസ്ഥാനപരമായ വ്യത്യാസവും ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന നേട്ടവും ഫീഡ് ഫോർവേർഡ് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന പോരായ്മയുമാണ് ഇപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതിനാൽ ഫീഡ് ഫോർവേഡ് കണ്ട്രോളറുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് മനസിലാക്കാം ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളറിന്റെ രൂപകൽപ്പനയ്ക്ക് ഒരു മാതൃക ആവശ്യമാണ് മോഡലുകൾ നേടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിലും സ്റ്റെഡി സ്റ്റേറ്റ് മോഡലുകൾ നേടാൻ എളുപ്പമാണ് അതിനാൽ ആദ്യം നമുക്ക് ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് സ്റ്റെഡി സ്റ്റേറ്റ് മോഡലിനെ അടിസ്ഥാനമാക്കി നോക്കാം വ്യക്തമായും കൺട്രോളർ ഡിസ്റ്റർബൻസ് വളരെ നല്ല ട്രാൻസിയൻറ്റ് റെസ്പോൺസ് നമുക്ക് നൽകിയേക്കില്ല എന്നാൽ ആദ്യ ഘട്ടമെന്ന നിലയിൽ സ്റ്റെഡി സ്റ്റേറ്റ് മോഡലുകളെ അടിസ്ഥാനമാക്കി ഒരു ഫീഡ് ഫോർവേഡ് കണ്ട്രോളർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നമ്മൾ കാണണം നമുക്ക് ഒരു ടാങ്ക് ഉള്ള ഒരു പ്രക്രിയയുണ്ട് കുറച്ച് ദ്രാവകം ഒഴുകുന്നു ഒപ്പം ഇൻലെറ്റ് ദ്രാവകത്തിന് താപനില Ti ഉണ്ട് ഒരു ഔട്ട്ലെറ്റ് ഫ്ലോ എഫ് ഉണ്ട് നമ്മൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന താപനില T ഉണ്ട് നീരാവി വാൽവ് സ്ഥാനത്തേക്കാൾ ഈ നീരാവി വാൽവ് പ്രവാഹം മാറ്റിയാണ് നമ്മൾ ഇത് പരിപാലിക്കുന്നത് ലാളിത്യത്തിനായി മോഡൽ സൃഷ്ടിക്കാനായി ഈ യു മാറ്റാം നമുക്ക് പ്രക്രിയയിലേക്ക് ചൂട് ഇൻപുട്ട് മാറ്റാൻ കഴിയും പ്രോസസ് മോഡൽ സമവാക്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് രണ്ട് മോഡലുകൾ ഉണ്ട് ഒന്ന് മാസ് ബാലൻസ് ആണ് A എന്നത് ടാങ്കിന്റെ ക്രോസ് സെക്ഷനും H എന്നത് ഉയരവുമാണ് ടാങ്കിന്റെ വോള്യൂമെട്രിക് ശേഖരണ നിരക്ക് dH dt ആണ് അത് ഔട്ട്ലെറ്റ് ഫ്ലോ നിരക്ക് മൈനസ് ഇൻലെറ്റ് ഫ്ലോ നിരക്കിന് തുല്യമായിരിക്കണം എന്ന് പറയുന്നു ഇത് ലളിതമാണ് രണ്ടാമത്തെ സമവാക്യം എനർജി ബാലൻസ് ആണ് നിങ്ങൾ ρCp ഉപയോഗിച്ച് ഗുണിച്ചാൽ ഇൻലെറ്റ് എന്തൽപി FiρCpFi Ti ആണെന്ന് നിങ്ങൾ കണ്ടെത്തും ഗുണിച്ചാൽ ρCp നമുക്ക് ലഭിക്കും ρCpFiTi ഇൻകമിംഗ് ദ്രാവകത്തിന്റെ ഇൻപുട്ട് എന്തൽപിയാണ് ഔട്ട്ഗോയിംഗ് ദ്രാവകത്തിന്റെ ഔട്ട്പുട്ട് എന്തൽപിയാണിത് അവശേഷിക്കുന്നത് ഈ കോയിലിലൂടെയുള്ള അധിക താപ ഇൻപുട്ടാണ് അതിനാൽ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ടിന്റെ ആകെ തുക സ്റ്റാൻഡേർഡ് ആയ പ്രക്രിയയുടെ താപനില വർദ്ധിപ്പിക്കും Fi F എന്നിവ തുല്യമാണെന്ന് ആദ്യം നമുക്ക് അനുമാനിക്കാം ലെവൽ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു നിയന്ത്രണ ലൂപ്പ് ഉണ്ടാകാം F നിയന്ത്രിക്കുന്ന മറ്റൊരു നിയന്ത്രണ ലൂപ്പ് ഉണ്ടായിരിക്കാം കൂടാതെ Fi യുമായി പൊരുത്തപ്പെടുന്നതിന് ഒരു പമ്പ് ഉപയോഗിച്ചേക്കാം ലെവൽ സ്ഥിരമായി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരമൊരു ലൂപ്പ് നിലവിലുണ്ടെന്നും അത് എങ്ങനെയെങ്കിലും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും കരുതുക അതുകൊണ്ട് തന്നെ Fi എന്നത് F എന്നതിനു തുല്യമായ കാരണം ഈ സമവാക്യത്തിലെ ആദ്യ പദം Fi Ti - T ആയി മാറുന്നു മറ്റൊരു സാഹചര്യത്തിൽ താപനില സ്ഥിരമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഇവിടെ എന്താണ് അസ്വസ്ഥത ഉദാഹരണത്തിന് Fi F എന്നിവ സ്ഥിരമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാം പക്ഷേ അത് മാറുന്നില്ല അതിനാൽ Ti യിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാം അതായത് ഇൻലെറ്റ് ദ്രാവകത്തിന്റെ താപനില വ്യത്യാസപ്പെടാം അതിന്റെ താപനില വ്യത്യാസപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് താപ ഇൻപുട്ട് മാറ്റേണ്ടതുണ്ട് Q അതിനാൽ T പരിപാലിക്കപ്പെടുന്നു ഇതാണ് നമ്മളുടെ നിയന്ത്രണ പ്രശ്നം നമ്മൾ ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണം നടത്തുകയാണെങ്കിൽ ഒരു താപനില വ്യതിയാനമുണ്ടെങ്കിൽ അത് ആദ്യം T യെ ബാധിക്കേണ്ടതുണ്ട് അതിനാൽ T മാറും ദ്രാവകത്തിന്റെ മുഴുവൻ മാസ് എപ്പോൾ മാറുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു T മാറുന്നതിനുമുമ്പ് വളരെയധികം സമയം നടക്കും കാരണം ഇത് വോളിയത്തിലൂടെ കൂടിച്ചേരേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ഈ Ti സെൻസ് ചെയ്യുന്നതായി കരുതുന്നു ഇവിടെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഇട്ടു ഒരു ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ഇട്ടു ഒരു കൺട്രോളർ ഇട്ടതിനുശേഷം ഇവിടെ ഫീഡ്ബാക്ക് നൽകുന്നു ഇവിടെ നമ്മൾ സെറ്റ് പോയിന്റ് നൽകുന്നു അതിനാൽ നമ്മൾ ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നു ഇതാണ് ഫീഡ് ഫോർവേർഡ് കൺട്രോളർ ഞാൻ ഈ ഇൻപുട്ട് ഇവിടെ പ്രയോഗിക്കുന്നു ഈ സമവാക്യത്തിന്റെ ഇടതുവശത്തുള്ള താപനില പൂജ്യമാകുന്ന തരത്തിൽ Q നുള്ള എന്റെ നിയന്ത്രണ നിയമം എന്തായിരിക്കണം താപനില വർദ്ധിക്കില്ലെന്നാണ് ഇതിനർത്ഥം അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് വലതുവശത്ത് പൂജ്യത്തിന് തുല്യമാണ് അതായത് T ഈ ബന്ധത്തിന് തുല്യമാണ് ഇപ്പോൾ ടി സെറ്റ് പോയിന്റിന് തുല്യമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് എന്റെ അവസാന ഫീഡ് ഫോർവേർഡ് കൺട്രോൾ നിയമമാണ് ഇത് സെറ്റ് പോയിൻറ് ഇൻപുട്ട് എടുക്കുന്നു ഡിസ്റ്റർബൻസ് ഇൻപുട്ട് എടുക്കുന്നു ഈ ഗുണകങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രക്രിയയുടെ മാതൃക എടുക്കുകയും പ്ലാന്റിലേക്ക് ഇൻപുട്ടായി പോകുന്ന ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നു ദ്രാവകത്തിന്റെ സാന്ദ്രതയുടെ മൂല്യമായ Rho യുടെ മൂല്യത്തിൽ ഞാൻ എന്തെങ്കിലും പിശക് വരുത്തിയാൽ ഉടൻ തന്നെ Q ന്റെ മൂല്യം കൂടുതലായിരിക്കും കൂടാതെ താപനില Tsp മായി പൊരുത്തപ്പെടുന്നില്ല എന്നിരുന്നാലും ഇതാണ് നമ്മളുടെ പ്രശ്നം നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്തു സ്റ്റെഡി സ്റ്റേറ്റ് മോഡലിനെ അടിസ്ഥാനമാക്കി ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളർ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു കൺട്രോളറിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി നിങ്ങൾക്ക് F T ഉള്ളതിനാലും കൺട്രോളറിന്റെ ആവശ്യം രേഖീയമല്ലാത്തതിനാലും ഇവയെല്ലാം ഒരുമിച്ച് വർദ്ധിക്കും അതിനാൽ ലീനിയർ ആകാൻ യാതൊരു ഉറപ്പുമില്ല പക്ഷേ അത് നമുക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല ഒരു പ്രക്രിയയിൽ നമുക്ക് എല്ലായ്പ്പോഴും ലീനിയർ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും ഇതിന് കൃത്യമായ പ്രോസസ് മോഡൽ ആവശ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗുണകങ്ങളിൽ നിങ്ങൾ പിശകുകൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രണത്തിൽ ഒരു പിശക് ലഭിക്കും Ti ൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ എന്തുസംഭവിക്കും Q ൽ ഒരു ഘട്ടം മാറ്റം ഉണ്ടാകും പക്ഷേ Q ലെ ഒരു ഘട്ടം മാറ്റം ടാങ്കിലെ താപനിലയുടെ പ്രതികരണത്തെ ഒരു ക്ഷണികമായി പൊരുത്തപ്പെടുന്നില്ല അതായത് ഓരോ തൽക്ഷണത്തിലും താപനിലയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില ക്ഷണികമായേക്കാം നിങ്ങൾക്ക് ശരിക്കും ട്രാൻസിയൻറ്റ് പൊരുത്തപ്പെടുത്തൽ വേണമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഡൈനാമിക് മോഡലുകളെ അടിസ്ഥാനമാക്കി ഫീഡ് ഫോർവേഡ് കണ്ട്രോളറുകൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്യണം എന്നാൽ ലളിതമായ ഒരു പ്രോസസ്സ് മോഡൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന വിലയാണിത് അതിനാൽ ട്രാൻസിയൻറ്റ് പ്രതികരണ രൂപീകരണത്തിന് നമുക്ക് ഒരു ഡൈനാമിക് ഫീഡ് ഫോർവേഡ് നിയന്ത്രണം ആവശ്യമാണ് ഒരു ഡൈനാമിക് മോഡൽ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ലളിതമായ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അതായത് ഈ പ്രശ്നത്തിന്റെ ലളിതമായ വിപുലീകരണം നമുക്ക് നോക്കാം ഡൈനാമിക് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള ഫീഡ് ഫോർവേഡ് കണ്ട്രോളർ രൂപകൽപ്പനയിൽ നമ്മൾ ഒരേ പ്രക്രിയയും ഒരേ സമവാക്യങ്ങളും ആണ് പരിഗണിക്കുന്നത് നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോർം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു മോഡൽ ലഭിക്കും ഇത് Rho ആണ് ഇത് സമയ സ്ഥിരതയാണ് tau ആണ് ഇതും tau ആണ് ഇത് പ്രക്രിയയുടെ സമയ സ്ഥിരതയാണ് പ്രക്രിയയുടെ സമയ സ്ഥിരത പ്രക്രിയയുടെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇത് V ആണെങ്കിൽ ഇത് ഇൻലെറ്റ് ഫ്ലോ റേറ്റ് Fi ആണെങ്കിൽ സമയ സ്ഥിരാങ്കം ആശ്രയിച്ചിരിക്കുന്നത് V യെ Fi കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന പദത്തെയാണ് ഇത് സമയ സ്ഥിരതയാണ് ഇത് പ്രക്രിയയുടെ ഡൈനാമിക് പാരാമീറ്ററാണ് ഇത് മോഡലിനെ ഡൈനാമിക് ആകുന്നു ഇത് നൽകിയ സിസ്റ്റത്തിന്റെ ഡൈനാമിക് മാതൃക നമുക്ക് ഇപ്പോൾ ഉണ്ട് T സെറ്റ് പോയിന്റ് ആയ Tsps നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ s അതിനർത്ഥം സെറ്റ് പോയിന്റിന്റെ സമയ ഫംഗ്ഷനെ യഥാർത്ഥ താപനിലയുടെ സമയ ഫംഗ്ഷനുമായി പൊരുത്തപ്പെടുത്താൻ ഡൈനാമിക് ആയി ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് T Tsp ആയി നിലനിർത്തണം നമ്മൾ ആഗ്രഹിക്കുന്നത് T Tsp എന്നത് ഓരോ സമയത്തും തൽക്ഷണത്തിലും നിലനിർത്തേണ്ടതുണ്ട് അന്തിമ മൂല്യത്തിന് മാത്രമായിട്ടല്ല ലാപ്ലേസ് ഡൊമെയ്നിൽ നമ്മൾ അവ പരിഗണിക്കുകയാണെങ്കിൽ T എന്നത് Tsp ന് തുല്യമായിരിക്കും ഇപ്പോൾ ഇടത് വശത്ത് T ഉണ്ടായിരുന്ന മുമ്പത്തെ സമവാക്യത്തിൽ നിങ്ങൾ അവിടെ Tsp ഇടുകയും Q പരിഹരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിക്കും അത് ഇപ്പോൾ പുതിയ ഡൈനാമിക് ഫീഡ് ഫോർവേഡ് കൺട്രോൾ നിയമമാണ് സെറ്റ് പോയിൻറ് മാറ്റം ഇപ്പോൾകാണുന്നത് വളരെ രസകരമാണ് അതായത് 1 1 sτ കൊണ്ട് ഗുണിച്ചതായി കാണുവാൻ സാധിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥമെന്താണ് നിങ്ങൾ ഒരു സെറ്റ് പോയിൻറ് മാറ്റം നൽകുകയാണെങ്കിൽ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ അതിന് വളരെയധികം ഉയർന്ന ഇൻപുട്ട് ആവശ്യമാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഈ കൺട്രോളർ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾക്ക് അത്തരം കമാൻഡ് മാറ്റങ്ങൾ നൽകാനും കഴിയില്ല അത്തരം കമാൻഡ് മാറ്റങ്ങൾ ഗണിതശാസ്ത്രപരമായി ശരിയാണ് എന്നാൽ ഈ സമവാക്യം നിങ്ങളോട് പറയുന്നു ഒരു സെറ്റ് പോയിന്റ് മാറ്റമുണ്ടെങ്കിൽ താപനില കൃത്യമായി സെറ്റ് പോയിന്റ് മാറ്റത്തെ പിന്തുടരണമെങ്കിൽ നിങ്ങൾ പ്രക്രിയയ്ക്ക് ഒരു പ്രേരണ ഇൻപുട്ട് നൽകണം ഇത് വ്യക്തമായി സാധ്യമല്ല കാരണം ആക്യുവേറ്ററുകളുടെ സാച്ചുറേഷൻ ഉണ്ടാകും പ്രതികരണം മനസ്സിലാകില്ല എന്നാൽ വേഗത കുറഞ്ഞ സെറ്റ് പോയിൻറ് മാറ്റങ്ങൾക്ക് ഇവ ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനെ കമാൻഡ് പ്രീ ഫിൽട്ടറിംഗ് എന്ന് വിളിക്കുന്നത് പ്രോസസ്സിലേക്ക് സെറ്റ് പോയിന്റ് പ്രയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പ്രീ ഫിൽട്ടർ ഇടുന്നു ഇത് മറ്റൊരു നിരീക്ഷണമാണ് ഈ നിയമം രൂപകൽപ്പന ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഡൈനാമിക് പാരാമീറ്റർ tau ആവശ്യമാണ് കൂടാതെ സ്റ്റെപ്പ് സെറ്റ് പോയിന്റുകൾക്കായി ഈ നിയന്ത്രണ നിയമം സാക്ഷാത്കരിക്കാനാവില്ല സെറ്റ് പോയിന്റുകൾ പോലെ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കമാൻഡ് പ്രീ ഫിൽട്ടർ എന്നറിയപ്പെടുന്നവ നമ്മൾ ഇടുന്നു സെറ്റ് പോയിന്റ് നേരിട്ട് പ്ലാന്റിന് നൽകാൻ നമ്മൾ ഓപ്പറേറ്ററെ അനുവദിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഒരു ഫിൽട്ടർ മുന്നിൽ വയ്ക്കുന്നു അദ്ദേഹം സെറ്റ് പോയിന്റ് നൽകിയാൽ പ്ലാന്റിലേക്ക് പോകുന്ന യഥാർത്ഥ സെറ്റ് പോയിന്റ് അത് സാവധാനത്തിൽ ഉയരും അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഈ നിയന്ത്രണ ഇൻപുട്ട് സാച്ചുറേഷൻ നടക്കില്ല നിങ്ങൾക്ക് ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ കഴിയും ഒരു ഫീഡ് ഫോർവേർഡ് കൺട്രോളർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നതിന്റെ വളരെ ലളിതമായ ഉദാഹരണമാണിത് ഇപ്പോൾ ഫീഡ് ഫോർവേഡ് നിയന്ത്രണത്തിന്റെ പോരായ്മകൾ നമുക്ക് നോക്കാം നിയന്ത്രണ മോഡൽ കൃത്യതയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു രണ്ട് ലോകങ്ങളിലും ഏറ്റവും മികച്ചത് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു കൺട്രോളർ ചുവടുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നിയന്ത്രണ നിയമം മോഡൽ കൃത്യതയെ നിർണായകമായി ആശ്രയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല മോഡൽ അൽപ്പം കൃത്യതയില്ലാത്തതാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് നിയന്ത്രണ പ്രകടനത്തിൽ പിശക് ലഭിക്കും അതിനാൽ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്യേണ്ടത് രണ്ട് ലോകങ്ങളിലും ഏറ്റവും മികച്ചത് നേടുന്നതിന് ഫീഡ്ബാക്കിനൊപ്പം നമ്മൾ ഫീഡ് ഫോർവേഡ് ചേർക്കണം അതിനാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ നോക്കാം നമുക്ക് ഈ പ്രശ്നം നോക്കാം ഇത് ഒരേ പ്രക്രിയയാണ് അതിനാൽ നമുക്ക് ഫീഡ് ഫോർവേർഡ് കൺട്രോളർ ഉണ്ട് കൂടാതെ ഒരു T സെറ്റ് പോയിൻറ് ഉണ്ട് അത് ഒരു കമാൻഡ് പ്രീ ഫിൽറ്റർ വഴി വരുന്നു പ്രീ ഫിൽട്ടറും Ti ഉം കമാൻഡ് ഉം ഈ Fi Rho CP വഴി പോകുന്നു തുടർന്ന് നമുക്ക് u ലഭിക്കുന്നു എന്നാൽ ഇപ്പോൾ അതിനൊപ്പം നമ്മൾ മറ്റൊരു ലൂപ്പും ചേർക്കുന്നു ഈ ഭാഗം നമ്മൾ കണ്ട പതിവ് ഫീഡ് ആണ് ഈ ഭാഗം ഡിസ്റ്റർബൻസ് അളക്കുകയും സെറ്റ് പോയിന്റ് നൽകുകയും പഴയ കണക്കാക്കിയ നിയമമനുസരിച്ച് നമ്മൾ നിയന്ത്രണ ഇൻപുട്ട് നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ നിയന്ത്രണ ഇൻപുട്ടിൽ യഥാർത്ഥത്തിൽ രണ്ട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു ഭാഗം ഫീഡ് ഫോർവേഡിൽ നിന്നും മറ്റൊന്ന് ഫീഡ്ബാക്കിൽ നിന്നും വരുന്നു ഇപ്പോൾ നമ്മൾ Tഅളക്കുകയും അത് തിരികെ നൽകുകയും ഇവിടെ സെറ്റ് പോയിന്റ് ജനറേറ്റിംഗ് പിശകുമായി താരതമ്യം ചെയ്യുകയും PI കൺട്രോളർ വഴി ഫീഡ് നൽകുകയും ചെയ്യുന്നു ഇതാണ് u ഫീഡ്ബാക്ക് ഇത് ഒരുമിച്ച് u നൽകുന്ന എന്റെ u ഫീഡാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് Rho യിൽ മോഡലിംഗ് പിശക് ഉണ്ടെന്ന് കരുതുക Rho ഒരുപക്ഷേ അല്പം കുറവായിരിക്കും അതിനാൽ നിയന്ത്രണ ഇൻപുട്ട് ഫീഡ് ഫോർവേഡ് ചെയ്യും നിയന്ത്രണ ഇൻപുട്ട് u ഇപ്പോൾ കുറച്ച് കുറവായിരിക്കും അതിനാൽ ചില നിയന്ത്രണ പിശക് ഇപ്പോൾ നിർമ്മിക്കപ്പെടും ആ നിയന്ത്രണ പിശക് ഇപ്പോൾ ഫീഡ്ബാക്ക് ഭാഗം തിരിച്ചറിയുകയും അത് അധിക ഇൻപുട്ട് നൽകുകയും ചെയ്യും മോഡലിംഗ് പിശക് കാരണം ഒന്നുകിൽ ആവശ്യമുള്ളതിനേക്കാൾ കുറവോ കൂടുതലോ വലുതോ ആണെങ്കിൽ അനുബന്ധ നഷ്ടപരിഹാര തിരുത്തൽ ഫീഡ്ബാക്ക് ഇൻപുട്ട് നൽകും തുടർന്ന് മൊത്തത്തിലുള്ള ഇൻപുട്ട് ശരിയായ ഒന്നായിരിക്കും അതിനാൽ സംഭവിക്കുന്നത് എന്തെന്നാൽ വളരെയധികം വേഗത ലഭിക്കും അതായത് ഫീഡ് ഫോർവേഡിൽ നിന്നും വരുന്ന ഇൻപുട്ട് മിക്കതും വേഗത്തിൽ വരും മോഡൽ കൃത്യതയില്ലാത്തതിനാൽ ചെറിയ ഇൻപുട്ട് മാത്രമേ വരൂ ഫീഡ്ബാക്ക് വഴി ചെറിയ ഇൻപുട്ട് നൽകും ആ ചെറിയ ഇൻപുട്ട് സാവധാനത്തിൽ വന്നാലും മിക്ക തിരുത്തലുകളും വളരെ വേഗത്തിൽ വരും നിങ്ങൾക്ക് വളരെ നല്ല പ്രതികരണം ലഭിക്കും ഒപ്പം സ്ഥിരമായ അവസ്ഥയിൽ ഫീഡ്ബാക്ക് തിരുത്തലുകൾ കാരണം നിങ്ങൾക്ക് ഒരു പിശകും ലഭിക്കില്ല അതിനാൽ നിങ്ങൾക്ക് രണ്ട് ലോകങ്ങളിലും മികച്ചത് ലഭിച്ചു അതിനാൽ ഫീഡ് ഫോർവേഡുമായി ഫീഡ്ബാക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ആശയമാണിത് ഫീഡ്ബാക്ക് എല്ലായ്പ്പോഴും ഫീഡ് ഫോർവേഡുമായി സംയോജിപ്പിക്കുന്നതിനുള്ള കാരണം ഇതാണ് ശുദ്ധമായ ഫീഡ് ഫോർവേർഡ് ഒരിക്കലും എവിടെയും ഉപയോഗിക്കില്ല ഇപ്പോൾ നമ്മൾ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു ഒന്നാമതായി സ്റ്റബിലിറ്റി സ്വഭാവം ഫീഡ്ബാക്ക് ലൂപ്പിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഫീഡ് ഫോർവേർഡ് ലൂപ്പ് ഒരുതരം ഓപ്പൺ ലൂപ്പായതിനാൽ ഇവിടെ സ്ഥിരത ചോദ്യമൊന്നുമില്ല എന്നാൽ നിയന്ത്രണ ഊർജ്ജം കൂടുതലും ഫീഡിൽ നിന്ന് മുന്നോട്ട് വരുന്നു കാരണം മിക്ക തിരുത്തലുകളും വേഗത്തിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഫീഡ് ഫോർവേഡിന്റെ ഗെയിൻ നമ്മൾ ക്രമീകരിക്കുന്നു അതായത് സെറ്റ് പോയിന്റിലെ മാറ്റത്തിന് ആവശ്യമായ u വിന്റെ പരമാവധി ഭാഗം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫീഡ് ഫോർവേഡിൽ നിന്നും വരുന്ന ഡിസ്റ്റർബൻസ് ഭൂരിഭാഗം ഊർജ്ജവും ഫീഡിൽ നിന്ന് മുന്നോട്ട് വരുന്നു ഫീഡ് ഫോർവേഡിലെ നിയന്ത്രണ പിശക് മാത്രമേ ഫീഡ്ബാക്ക് നിയന്ത്രണം വഴി ശരിയാക്കൂ ഫീഡ്ബാക്കിൽ നിന്ന് വരുന്ന നിയന്ത്രണ ഇൻപുട്ടിന് യഥാർത്ഥത്തിൽ മൂല്യം കുറവാണ് അതിനാലാണ് ഇതിനെ ഫീഡ്ബാക്ക് ട്രിം എന്ന് വിളിക്കുന്നത് ഫീഡ് ഫോർവേർഡിനൊപ്പം ഫീഡ്ബാക്ക് ചേർക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഒരു സങ്കലന തിരുത്തലാണ് സങ്കലന തിരുത്തലിൽ നിങ്ങൾ ആദ്യം ഫീഡ് ഫോർവേഡ് പ്രയോഗിക്കുകയും ബാക്കിയുള്ളവ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് പദം നൽകുകയും ഇൻപുട്ടിനൊപ്പം ചേർക്കുകയും ചെയ്യും മറുവശത്ത് നമുക്ക് ഇതിനെ അല്പം വ്യത്യസ്തമായ രീതിയിൽ ബന്ധിപ്പിക്കാനും കഴിയും ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക്സാധാരണ ഫീഡ് ഫോർവേഡ് ഉണ്ട് വീണ്ടും നമ്മൾ ഡിസ്റ്റർബൻസ് അളക്കുന്നു ഇതൊരു ഫീഡ് ഫോർവേർഡ് കൺട്രോളറാണ് ഇപ്പോൾ സെറ്റ് പോയിന്റ് നേരിട്ട് നൽകിയിട്ടില്ല മുമ്പ് നമുക്ക് സെറ്റ് പോയിന്റ് നേരിട്ട് ഫീഡ് ഫോർവേർഡ് കൺട്രോളറിലേക്ക് നൽകി ഫീഡ്ബാക്ക് നിയന്ത്രണമാണ് ഇപ്പോൾ സെറ്റ് പോയിന്റ് നൽകുന്നത് ഫീഡ്ബാക്ക് കൺട്രോളർ ഫീഡ് ഫോർവേഡ് നിയന്ത്രണത്തിന് ഒരു സെറ്റ് പോയിന്റ് നൽകുന്നുവെന്ന് കരുതുക അതിനാൽ വീണ്ടും ഫീഡ് ഫോർവേർഡ് പ്രവർത്തനം കാരണം ഈ ഇൻപുട്ട് ശരിയല്ലെങ്കിൽ T T സെറ്റ് പോയിൻറുകൾ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകും ഉടൻ തന്നെ ചില പിശകുകൾ ഉണ്ടാകും ആ പിശക് കാരണം ഫീഡ് ഫോർവേർഡ് കൺട്രോളറിന് നൽകുന്ന തുല്യമായ സെറ്റ് പോയിൻറ് ഉയർത്തപ്പെടും അതിനാൽ ഫീഡ്ബാക്ക് കൺട്രോളർ ഒരു ഓപ്പറേറ്ററെപ്പോലെ തുടരും ഇത് യഥാർത്ഥത്തിൽ ഫീഡ് ഫോർവേർഡ് കൺട്രോൾ പ്രകടനത്തെ നോക്കുകയും താപനില ശരിയാകുന്നതുവരെ ക്രമേണ സെറ്റ് പോയിൻറ് മാറ്റുകയും ചെയ്യുന്നു ഫീഡ്ബാക്ക് കണ്ട്രോളർ താപനിലയിലേക്ക് നോക്കുകയും പിശകിനെ ആശ്രയിച്ച് ഫീഡ് ഫോർവേഡിലേക്ക് സെറ്റ് പോയിൻറ് ഉയർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അത് അതിന്റെ നിയന്ത്രണ ഇൻപുട്ട് നൽകുന്നു അതിനാൽ ഫീഡ് ഫോർവേർഡ് കൺട്രോളർ ഫീഡ്ബാക്ക് കൺട്രോളറുമായി സംയോജിപ്പിക്കാൻ രണ്ട് വ്യത്യസ്ത കോൺഫിഗറേഷനുകൾ ഉണ്ട് ഫീഡ്ബാക്ക് കണ്ട്രോളർ സ്ഥിരതയെ ബാധിച്ചേക്കാം നമ്മൾ സ്ഥിരത ചോദ്യം ആഴത്തിൽ പരിശോധിക്കുന്നില്ല എന്നാൽ വ്യക്തമായും ഫീഡ്ബാക്ക് കൺട്രോളർ സ്ഥിരതയെ ബാധിച്ചേക്കാം കാരണം ലൂപ്പ് അസ്ഥിരമാവുകയാണെങ്കിൽ തുല്യമായ ടി സെറ്റ് പോയിന്റ് യഥാർത്ഥത്തിൽ ആന്ദോളനം ചെയ്യുകയും തുടർന്ന് മുഴുവൻ ലൂപ്പും ആന്ദോളനം ചെയ്യുകയും ചെയ്യും സ്വാഭാവികമായും അത്തരമൊരു കാര്യം സംഭവിക്കാം നമ്മൾ ഇവിടെ വിശദമായി പരിശോധിക്കുന്നില്ലെങ്കിലും സ്ഥിരത പോലുള്ള ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതും വിശകലനം ചെയ്യുന്നതും അത്ര എളുപ്പവുമല്ല